ആറാമത്തെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഈ ആഴ്ച നമ്മൾ മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ ഇംപെഡൻസ് മാച്ചിങ് കാണാൻ പോകുന്നു കഴിഞ്ഞ ആഴ്ചയിലെ അവസാന മൊഡ്യൂളിൽ ഇംപെഡൻസിന്റെ പ്രാധാന്യം മൈക്രോവേവ് ഫ്രീക്വൻസികളിൽ ഇംപെഡൻസ് എങ്ങനെ അളക്കാം പ്രത്യേകിച്ചും വളരെ ഗംഭീരമായ ടൂൾ ആയ സ്മിത്ത് ചാർട്ടിന്റെ ഉപയോഗവും ഇംപെഡൻസ് അളക്കാൻ സ്മിത്ത് ചാർട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നതും നമ്മൾ കണ്ടു ഇന്ന് ഒരു നെറ്റ്വർക്കിന്റെ വിവിധ ഭാഗങ്ങൾക്കിടയിൽ ഒരു ഇംപെഡൻസ് മിസ്മാച്ച് ഉണ്ടെങ്കിൽ ധാരാളം പവർ പാഴാകുകയും മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ പവർ പ്രീമിയത്തിലായിരിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പവർ അയക്കാൻ ശ്രമിക്കുമ്പോൾ പവർ നഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് എപ്പോഴും നോക്കണം അതിനാൽ ആ നഷ്ടം കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അതിനായി ആ പവർ നഷ്ടം തടയാൻ ഇംപെഡൻസ് മാച്ചിങ് നടത്തേണ്ടതുണ്ട് ഈ ആശയം ഇന്നത്തെ ആറാമത്തെ പ്രഭാഷണത്തിൽ വിശദമായി കാണാം അതിനാൽ ഇന്നത്തെ വിഷയം മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ ഇംപെഡൻസ് മാച്ചിങ്ങിന്റെ ആവശ്യകതയാണ് ഇപ്പോൾ എനിക്ക് ഒരു സോഴ്സുണ്ടെന്ന് കരുതുന്ന പൊതുവായ കാര്യമാണിത് നിങ്ങൾ കാണുന്ന ഇടതുവശത്ത് എനിക്ക് സോഴ്സ്source ഉണ്ട് ആ സോഴ്സ് ലോഡിലേക്ക് പവർ എത്തിക്കുന്നു ഇപ്പോൾ തീർച്ചയായും സോഴ്സ് ഒരു ലോഡിലേക്ക് ബന്ധിപ്പിക്കാൻ കഴിയില്ല ഒരു സെല്ലുലാർ ടെലിഫോണി സ്റ്റേഷന്റെ ഒരു ബേസ് സ്റ്റേഷനായമൊബൈൽ ഫോൺ ബേസ് സ്റ്റേഷൻ അത് നിങ്ങളുടെ കൈവശമുള്ള വിവിധ മൊബൈൽ സെറ്റുകളിലേക്ക് പവർ അയക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ആ പവർ അതിന്റെ സോഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ ഒരു വേവ് ഗൈഡിലേക്ക് പവർ അയയ്ക്കുന്നത് അത് ഒടുവിൽ ഒരു ആന്റിനയുമായി ബന്ധിപ്പിക്കുന്നു അതിനാൽ ആ ആന്റിന ട്രാൻസ്മിഷൻ ലൈനിലേക്ക്കുള്ള ഒരു ലോഡായി പ്രവർത്തിക്കുന്നു അതിനാൽ സ്ലൈഡിൽ ലോഡിലേക്ക് പവർ എത്തിക്കുന്നത് സോഴ്സാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ലോഡ് ആ ആന്റിനയാണെന്ന് നിങ്ങളുടെ മെന്റൽ ഫ്രെയിമിൽ നമുക്ക് പരിഗണിക്കാം അതിനാൽ അതിലൂടെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ പോകുന്നു ട്രാൻസ്മിഷൻ ലൈനിന് Z0 ന്റെ ക്യാരക്ടറിസ്റ്റിക്സുള്ള ഇംപെഡൻസ് ഉണ്ടെന്ന് നമുക്ക് പരിഗണിക്കാം സോഴ്സിന് ഒരു സോഴ്സ് ഇംപെഡൻസ് ഉണ്ട് കൂടാതെ സോഴ്സുകൾക്ക് ഇംപെഡൻസ് ഉണ്ട് ഇംപെഡൻസ് ഇല്ലാത്ത ഒറ്റ സോഴ്സ് ഇല്ല അതിനാൽ നമുക്ക് അതിനെ ZS എന്നും ലോഡ് ഇംപെഡൻസ് ഉള്ള ലോഡിനെ ZL എന്നും വിളിക്കാം ഇപ്പോൾ ZS 2 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു ഒന്ന് RS ആയ റിയൽ ഭാഗമാണ് മറ്റൊന്ന് XS ആയ ഒരു റിയാക്ടീവ് ഭാഗമാണ് അതിനാൽ നമുക്ക് എല്ലായ്പ്പോഴും എഴുതാം Z SRS j XS അതുപോലെ തന്നെ നമുക്ക് ലോഡ് സൈഡിൽ ZLRL j XL ഉണ്ടാക്കും കൂടാതെ റെസിസ്റ്റൻസ് RS ൽ ഉടനീളം ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും നമ്മൾ അതിനെ വിആർ എന്ന് വിളിക്കുന്നു ആ റെസിസ്റ്റൻസിലുടനീളം അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസിൽ ഒരു പവർ ഡ്രോപ്പ് അല്ലെങ്കിൽ പവർ ഡിസിപേറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ അതിനെ PR എന്ന് വിളിക്കുന്നു വോൾട്ടേജ് സോഴ്സ് ഒരു പവർ പിഎസ് വിതരണം ചെയ്യുന്നു അതിൽ നിന്ന് പിആർ RS ൽ ഡിസിപേറ്റ് ചെയ്യുന്നു വോൾട്ടേജ് സോഴ്സിന് VS ന്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഉണ്ട് ഇത് ഒരു എസി സോഴ്സ് ആണ് വ്യക്തമായും നിങ്ങൾക്ക് ഒരു ഡിസി സോഴ്സ് കൈമാറാൻ കഴിയാത്തതിനാൽ പവർ ലോഡിലേക്ക് എത്തുമ്പോൾ ആ ലോഡ് ഇംപെഡൻസിന്റെ റെസിസ്റ്റീവ് ഭാഗത്ത് ഉടനീളം സമാനമായ കാര്യമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പരിഗണിക്കാം അതായത് RL ൽ ഉടനീളം നമുക്ക് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട് അത് VR ആണ് അത് PR എന്ന റിയൽ ഭാഗത്തേക്ക് ഡിസിപേറ്റ് ചെയ്യുന്നു പൊതുവെ ZS ഉം ZL ഉം തുല്യമായി ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ സാധാരണയായി ഈ ZS ZL Z0 വ്യത്യസ്ത ഡിസൈനുകളുടെ ഭാഗമായതിനാൽ ഒരു സോഴ്സ് ഡിസൈനറോ ട്രാൻസ്മിറ്റർ ഡിസൈനറോ അതിന്റെ ZS പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ ആർഎൽ പരമാവധിയാക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ ഒരു ലോഡിന്റെ ഭാഗം മുഴുവനും ലഭിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ Z0 അത് വേവ് ഗൈഡഡ് ആയ ലൈനിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ആണ് അല്ലെങ്കിൽ ലൈൻ കോആക്സിയൽ ആയിരിക്കാം ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസ് മെറ്റീരിയലിനെയും കണ്ടക്ടർസ് എടുക്കുന്ന വിവിധ ജ്യാമിതീയ രൂപങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ അതിനെ അടിസ്ഥാനമാക്കി വിവിധ ക്യാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസ് ഉണ്ട് അതിനാൽ ഈ ZS ZL Z0 എന്നിവയ്ക്കിടയിൽ എപ്പോഴും ഇംപെഡൻസ് ലെവലുകളിൽ വ്യത്യാസമുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം സോഴ്സിൽ നിന്നുള്ള പവർ ലോഡിലേക്ക് നൽകുന്നത് പരിഗണിക്കുക ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് വിതരണം ചെയ്യുന്ന പവർ എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് സോഴ്സിൽ നിന്ന് ലോഡ് ഇംപെഡൻസിന്റെ റിയൽ ഭാഗത്തേക്ക് വിതരണം ചെയ്യുന്ന പവർ എന്നാണ് അതായത് അടിസ്ഥാനപരമായി നമ്മൾ ലോഡിന്റ RL ലേക്ക് എത്തിക്കുന്ന പവർ ദയവായി ഇത് ഓർക്കുക കാരണം നമ്മൾ XL ലേക്ക് വിതരണം ചെയ്യുന്ന പവർ അതായത് ലോഡിന്റെ റിയാക്ടീവ് ഭാഗം ഉപയോഗപ്രദമായ പവർ അല്ല അതൊരു റിയാക്ടീവ് പവർ ആണ് അതിനാൽ പ്രായോഗികമായ ഒരു ജോലി അത്കൊണ്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് വിതരണം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദേശിക്കുന്നത് ലോഡ് ഇംപെഡൻസിന്റെ റിയൽ ഭാഗത്തേക്ക് സോഴ്സിൽ നിന്ന് വിതരണം ചെയ്യുന്ന പവർ എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ റിയൽ ഭാഗത്തിനെ എടുത്തുകാണിക്കുന്നത് ഇത് ഒരു വ്യക്തത നെല്കുന്നതിനു മാത്രമാണ് അതിനാൽ പവർ ലോഡിലേക്ക് ഒഴുകുമ്പോളുള്ള വിവിധ ഇംപെഡൻസ് ലെവലുകൾ കാരണം നിങ്ങൾ അത് കാണുന്നു ഇപ്പോൾ വരിയിലെ Z0 ന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസിൽ നിന്ന് അത് ZL ന്റെ ലോഡ് ഇംപെഡൻസ് കാണുന്നു അതിനാൽ അവിടെ വേവ് 2 വ്യത്യസ്ത ഇംപഡൻസുകൾ ഉണ്ടെന്ന് എന്ന് നമ്മൾ കണ്ടു ഈ ഇംപെഡൻസ് ഡിസ്ക്ണ്ടിന്യൂയിറ്റി റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നു ഈ റിഫ്ലക്ഷൻനെ പവറിന്റെ ടേമ്സിൽ ΓL എന്ന് വിളിക്കുന്നു ഇത് പവർ റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റ് ΓL ആണ് അതുപോലെ ലോഡിൽ നിന്ന് ഏതെങ്കിലും പവർ റിഫ്ലക്ട് ചെയ്താൽ അത് ട്രാൻസ്മിഷൻ ലൈനിന്റെ സോഴ്സ് ഭാഗത്തേക്ക് പോകുന്നു വീണ്ടും സോഴ്സിൽ എത്തിയതിന് ശേഷം സോഴ്സിൽ ZS ഉള്ളതിനാൽ ഒരു മിസ്മാച്ച് ഉണ്ടെന്ന് കാണുന്നു പക്ഷേ ട്രാൻസ്മിഷൻ ലൈനിന്റെ പവർ ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസത്തിന് Z0 ക്യാരക്ടറിസ്റ്റിക് ഇംപഡൻസ് ആയി ഉണ്ട് അതിനാൽ വീണ്ടും നമ്മൾ ΓS എന്ന് വിളിക്കുന്ന ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും ഇത് സോഴ്സിലെ പവർ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ആണ് ഇപ്പോൾ പവർ ലോഡിൽ നിന്ന് സോഴ്സിലേക്കും തിരിച്ചും തുടർച്ചയായി ബൌൻസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് സോഴ്സും ലോഡും ഒരു ദൂരം കൊണ്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുക ആ ദൂരത്തിലേക്കുള്ള വേവിന്റെ യാത്രാ സമയം നമുക്ക് T d എന്ന് വിളിക്കാം അതിനാൽ വേവ് സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് അയയ്ക്കുന്നു Td സമയത്തിന് ശേഷം അത് ലോഡിലേക്ക് പോകുന്നു എന്നാൽ ലോഡിൽ മിസ്മാച്ച് ഉള്ളതിനാൽ പവറിന്റെ ചില ഭാഗം റിഫ്ലക്ട് ചെയ്യുകയും മറ്റ് ചില ഭാഗം ലോഡിൽ തങ്ങിനിൽക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ആ റിഫ്ലക്ട് ചെയ്ത പവർ വീണ്ടും സോഴ്സിലേക്ക് വരുന്നു സോഴ്സിൽ ΓS മിസ്മാച്ച് ഉള്ളതിനാൽ അത് വീണ്ടും ഒരു മിസ്മാച്ച് കാണും അതിനാൽ വീണ്ടും കുറച്ച് പവർ റിഫ്ലക്ട് ചെയുകയും അത് ലോഡിലേക്ക് തിരികെ പോകുകയും ചെയ്യും അത് ലോഡിൽ മറ്റൊരു റിഫ്ലക്ഷൻ അഭിമുഖീകരിച്ച് വീണ്ടും തിരികെ വരുകയും ചെയ്യുന്നു അതിനാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അനന്തമായ വേവ്സ് ഉണ്ടാകുന്നു അതിനാൽ ഏത് നിമിഷവും ലോഡിൽ വരുന്ന മൊത്തം പവർ എന്താണെന്ന് ഞാൻ കാണുകയാണെങ്കിൽ അതിൽ അനന്തമായ മുൻ റിഫ്ലക്ഷനുകളും ഇപ്പോൾ നടന്ന ഏറ്റവും പുതിയ റിഫ്ലക്ഷനും അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഇതാണ് ലോഡ് ഇതാണ് സോഴ്സ് എന്ന് കരുതികൊണ്ട് ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് കരുതുക ഒരു വേവ് മുമ്പ് Td ടൈം വന്നിട്ടുണ്ട് അതിനാൽ ഈ സോഴ്സ് അത് എത്തിച്ചു എന്നിട്ട് അത് ഇവിടെ വന്നിരിക്കുന്നു എന്നാൽ ഇത്തവണയും മറ്റൊരു വേവ് വരുന്നു മറ്റൊരു വേവ് ഉണ്ടാകുന്നതിന് 3 Td ടൈം മുമ്പ് അങ്ങനെ അത് ലോഡിലേക്ക് വന്നു മറ്റൊരു 2 ടിഡി തവണ അത് ഇവിടെ വരുകയും വീണ്ടും ഇവിടെക്ക് തന്നെ വരുകയും ചെയ്യുന്നു സോഴ്സിൽ നിന്ന് പുറപ്പെടുവിച്ച മറ്റൊരു വേവ് അത്തരം രണ്ട് റിഫ്ലക്ഷൻ അനുഭവിച്ച് ഇവിടെ തിരിച്ചെതുന്നതിന് മുമ്പ് അതിനാൽ ഇവയെല്ലാം തൊട്ട് മുമ്പത്തവയിൽ നിന്ന് 2 Td കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു അവ അടുത്ത് വരികയും ചെയുന്നു അതിനാൽ സ്ലൈഡിൽ നോക്കിയാൽ Td മാത്രം അകലെയുള്ള ഒരു വേവ് 3 T d അകലെയുള്ള സോഴ്സ് പുറപ്പെടുവിച്ച വേവ് ഈ സമയം മുതൽ 5 Td അകലെ 7 Td അകലെ എല്ലാം ആ സമയത്താണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എപ്പോൾ വേണമെങ്കിലും ലോഡിലേക്ക് എത്തുന്ന മൊത്തം പവർ എന്താണെന്ന് കണ്ടെത്താം അത് അനന്തമായി മുമ്പ് റിഫ്ലക്ട് ചെയ്ത വേവിന്റെ സംഗ്രഹമായിരിക്കും അതിനാൽ പവർ ലോഡിൽ എത്തുമ്പോൾ ഇവയെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ എഴുതിയത് അതുകൊണ്ടാണ് പക്ഷേ സോഴ്സ് തുടർച്ചയായ സൈനസോയ്ഡൽ വോൾട്ടേജ് വേവ് നൽകുന്നു എന്ന് നമുക്ക് പറയാം നമ്മൾ അതിനെ VS എന്ന് വിളിക്കുന്നു വോൾട്ടേജ് സോഴ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് ഭാഗം ആണ് VS വ്യക്തമായും കാലക്രമേണ നമുക്ക് ഒരു ടൈം ഹാർമോണിക് വ്യതിയാനമുണ്ട് ഒരു ഫേസർ പ്രാതിനിധ്യമുള്ള ഏത് സൈനസോയ്ഡൽ സോഴ്സും നമുക്ക് ഇങ്ങനെ എഴുതാം V V e jωt ഇപ്പോൾ സോഴ്സിൽ ഡെലിവർ ചെയുന്ന പവർ 0 ന് തുല്യമാണ് t എന്നത് 0 ന് തുല്യമാണെന്ന് നമുക്ക് പരിഗണിക്കാം ഇപ്പോൾ നമ്മുക്ക് സമയം കണക്കാകാം അതിനാൽ പവർ t Td ൽ ലോഡിലെത്തും T d സമയത്തിന് ശേഷം കുറച്ച് പവർ ലോഡ് റേറ്റിൽ തങ്ങിനിൽക്കുകയും അത് റിഫ്ലക്ട് ചെയുകയും ചെയ്യുന്നു അതോടൊപ്പം t n 2Td ദൂരെ എല്ലാ മുൻ സമയ തൽക്ഷണങ്ങളിലും സോഴ്സ് നൽകിയ പവർ റിഫ്ലക്ട് ചെയ്യുന്നു അതിനാൽ −2 Td −4 T d −5 Td ഇവ ഓരോന്നിനും പല റിഫ്ലക്ഷൻസ് ഉണ്ട് അവ t TD സമയത്ത് ലോഡിൽ എത്തുന്നു സോഴ്സിൽ നിന്ന് ലോഡിലേക്കോ ലോഡിൽ നിന്ന് സോഴ്സിലേക്കോ ഒരു പവർ വേവിന്റെ t ടൈമിലെ യാത്ര ഗണിതപരമായി ഒരു e j2ωt ഫെയ്സ് മാറ്റമാണ് ദയവായി ഈ 2 ശ്രദ്ധിക്കുക കാരണം ഇത് ഒരു പവർ വേവ് ആണ് അതിനാൽ ഒരു വോൾട്ടേജ് വേവിലോ കറന്റ് വേവിലോ അത് e jωt ആണ് എന്നാൽ ഒരു പവർ വേവിൽ ഇത് e j2ωt ആണ് അതിനാൽ ലോഡിൽ നിന്നുള്ള ഒരു തിരിച്ചു വരവ് നമ്മൾ കണ്ടതുപോലെ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്നെ ΓL കൊണ്ട് മാറ്റുന്നു കൂടാതെ ΓL പവർ റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റിന്റെ സ്ക്വയർ ആണ് കൂടാതെ സോഴ്സ് പവർ റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റിന്റെപവർ reflection coefficient കാര്യവവും ഇതുതന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലെ പ്രഭാഷണങ്ങളിൽ നിന്ന് വോൾട്ടേജ് ലോഡ് റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റ്നെ കുറിച്ച് നന്നായി അറിയാവുന്നവയാണ് അതോടൊപ്പം ലൈനിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇംപെഡൻസ് മൈനസ് ലോഡ് റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റ് ലോഡ് ഇംപെഡൻസ് ആയിരിക്കും ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ΓL ZL−Z0 ZL Z0 Γ s Z S Z0 സോഴ്സ് ലൈൻ ജംഗ്ഷനിൽ എത്തിക്കുന്നതിന് ഫ്രാക്ഷണൽ പവർ ലഭ്യമാണ് എനിക്ക് സോഴ്സ് ഉള്ളപ്പോൾ അതിനാൽ സോഴ്സ് സൈഡിൽ നിങ്ങൾ സോഴ്സ് കാണുന്നു അവിടെ ZS ഭാഗം ഉണ്ടായിരുന്നു തുടർന്ന് നിങ്ങൾ ഇവ ZL ന് നൽകുന്നു അതിനാൽ ഇതൊരു വോൾട്ടേജ് ഡിവൈഡറാണ് അതിനാൽ അതിന്റെ ഒരു ഫ്രാക്ഷൻ ലോഡിലേക്ക് ഡെലിവർ ചെയ്യുന്നു കൂടാതെ വ്യക്തമായും ലോഡിലേക്ക് ഡെലിവർ ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലോഡിന്റെ റിയൽ ഭാഗത്തേക്ക് എത്തിക്കുന്നു എന്നാണ് അതിനാലാണ് Kₚ RL|Z S Z L |² ഇപ്പോൾ ഓരോ വേവും ലോഡിലേക്ക് കുറച്ച് പവർ ഡെലിവർ ചെയുന്നു ഫുൾ പവർ ഡെലിവർ ചെയ്യില്ല ഓരോ ഇൻസ്റ്റന്റിലും ലോഡിലേക്ക് ഡെലിവർ ചെയുന്ന പവർ ആണ് പ്രധാനമായും റിഫ്ലക്ട് ചെയുന്ന വേവിന്റെ അനന്തമായ എണ്ണത്തിന് തുല്യമായിരിക്കും അതിനാൽ നമ്മൾ ഇത് രണ്ട് ഭാഗങ്ങളുടെ ആകെത്തുകയാണ് ചെയ്യുന്നത് ഒരു ഭാഗം എന്നത് TD സമയതിന്നു മുൻപ് സോഴ്സ് പുറപ്പെടുവിക്കുന്ന വേവിലൂടെ വിതരണം ചെയ്യുന്ന ആദ്യ ഭാഗമാണ് ഒരു യാത്രക്ക് എടുക്കുന്ന സമയത്തിന് മുൻപ് പ്ലസ് n TD സമയത്തിന് മുൻപ് സോഴ്സ് പുറപ്പെടുവിക്കുന്ന അനന്തമായ വേവ്സ് നൽകുന്ന പവർ ഇവ രണ്ടു ഗ്രൂപ്പുംgroup തമ്മിലുള്ള വ്യത്യാസം ആദ്യം വരുന്ന റിഫ്ലക്ഷൻ മാത്രമാണ് അതേസമയം മറ്റുള്ളതിന് അത്തരം ഒന്നിലധികം റിഫ്ലക്ഷൻ ഇതിനകം നടന്നിട്ടുണ്ട് അതിനാൽ ലോഡിലേക്ക് വിതരണം ചെയ്യുന്ന പവർ സമയത്തിനനുസരിച്ചു മാറിക്കൊണ്ടിരിക്കുമെന്ന് ഇവ ഉപയോഗിച്ച് നമുക്ക് പറയാൻ കഴിയും കാരണം വേവ്സ് വന്നുപോകുന്നത് ടൈം ഫംഗ്ഷനാണ് അതിനാൽ അത് സമയത്തിനനുസരിച്ചു മാറിക്കൊണ്ടിരിക്കും അതിനാൽ സോഴ്സ് പുറപ്പെടുവിക്കുന്ന ഏറ്റവും പുതിയ വേവ്സ് നൽകുന്ന പവറിനായി നമുക്ക് ഒരു പദപ്രയോഗം എഴുതാം അതായത് t 0 ൽ t TDയിൽ പുറപ്പെടുവിച്ചത് നമ്മൾക്ക് ഈ പദപ്രയോഗം എഴുതാം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇത് പവറിന്റെയും ഒരു വേവിന്റെയും എക്സ്പ്രഷനാണ് അതുപോലെ t −2TD ൽ മറ്റൊന്ന് നൽകുന്ന പവർ ആണ് രണ്ടാമത്തെ എക്സ്പ്രഷൻ ലോഡിൽ ആദ്യം ഒരു γ L ഫ്രാക്ഷണൽ പവർ എടുക്കുന്നുവെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും വീണ്ടും സോഴ്സിൽ അത് ഒരു ΓS ഫ്രാക്ഷണൽ പവർ എടുക്കുന്നു അതിനാൽ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ മൂന്നാം പദപ്രയോഗത്തിൽ പൊതുവായ പദപ്രയോഗം എഴുതിയത് നമ്മളുടെ റഫറൻസ് സമയത്തിൽ നിന്ന് t −2n TD പുറപ്പെടുവിച്ച വേവ് ആണ് എന്നാണ് അതിനാൽ എക്സ്പ്രഷനുശേഷം അത് ലോഡ് TD സമയം എത്തുമ്പോൾ ഇതുപോലെയാണ് കാരണം ഇതിന് ചെറിയ n എണ്ണം റിഫ്ലക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് അതിനാൽ നമ്മൾക്ക് ഇതുപോലൊരു പദപ്രയോഗം എഴുതാം അതിനാൽ ഇപ്പോൾ പവറിന്റെ ഇന്റന്സിറ്റി ഇവയുടെയെല്ലാം ആകത്തുക ആണ് അത് നമുക്ക് അനന്തമായ ജോമെട്രിക് സീരീസ് ആയി എഴുതാം അതിനാൽ ഇത് സമയത്തിന് അനുസരിച്ചു പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ കാണുന്നു അതിനാൽ സമയത്തിന് അനുസരിച്ച് പവറിന്റെ വിവിധ മൂല്യങ്ങൾ ഉണ്ടാകും അതിനാലാണ് പവർ സമയത്തിന് അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു എന്ന് നമ്മൾ പറയുന്നത് അതിനാൽ പവർ മാറുന്ന സമയത്തെ നമ്മൾ ട്രാൻസിയന്റ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു പക്ഷേ സമയം പുരോഗമിക്കുമ്പോൾ മുഴുവൻ കാര്യങ്ങളും γ γ n പവർ n കൊണ്ട് ഗുണിക്കുന്നത് നിങ്ങൾ കാണുന്നു ഇപ്പോൾ γ S ഉം γ L ഉം രണ്ടും ഫ്രാക്ഷൻസ് ആണ് അതായത് 1 ൽ കുറവ് അതിനാൽ ചെറിയ n ന്റെ മൂല്യം വർധിപ്പിക്കാൻ പോകുമ്പോൾ അതിൽ എത്തിച്ചേരുന്ന പവറിന്റെ അളവ് ചെറുതായിത്തീരുന്നു അതിനാൽ സമയത്തോടൊപ്പം വ്യതിയാനം ചെറുതായിത്തീരുന്നു എന്ന് നമ്മൾ പറയുന്നു അവസാനമായി പ്രായോഗികമായി ഒരു വ്യതിയാനവുമില്ലാത്തതിന് ശേഷം ഒരു സ്ഥാനം ഉയർത്തപ്പെടുന്നു വ്യക്തമായും ഒരു വ്യതിയാനമുണ്ട് പക്ഷേ അത് വളരെ ചെറുതാണ് അതിനാൽ ആ സമയത്തെ സ്റ്റെഡി സ്റ്റേറ്റ് എത്തി എന്ന് നമ്മൾ വിളിക്കുന്നു പൊതുവെ മാറ്റത്തിന് എടുക്കുന്ന സമയം വളരെ ചെറുതാണ് അതിനാൽ മുഴുവൻ നെറ്റ്വർക്കിന്റെയും സമയം കോൺസ്റ്റന്റിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ചെറിയ സമയത്തിനുശേഷം മുഴുവൻ കാര്യവും സ്റ്റെഡി സ്റ്റേറ്റിലേക്ക് പോകുന്നു കൂടാതെ എല്ലാ പ്രാക്ടിക്കൽ കേസുകൾക്കും കോൺസ്റ്റന്റ് ആയ ഒരു പവർ നമുക്കുണ്ട് ഇപ്പോൾ സ്റ്റെഡി സ്റ്റേറ്റിൽസ്റ്റേഡി state മിസ്മാച്ചിൽ നഷ്ടപ്പെടുന്ന പവർ എന്താണെന്ന് നോക്കാം ഇത് ഇതുപോലെ കാണിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്കാക്കാം കാരണം നിങ്ങൾ അനന്തമായ പദങ്ങൾക്കായി ഈ അനന്തമായ ശ്രേണി സംഗ്രഹിച്ചാൽ ഒരു ജ്യാമിതീയ ശ്രേണിയിൽ അനന്തമായ അംഗങ്ങളുണ്ടായിരിക്കും എന്നാൽ അവയുടെ ആകെത്തുക പരിമിതമാണെന്ന് നിങ്ങൾക്കറിയാം ആ തുക നമ്മൾ ചേർക്കുമ്പോൾ സ്റ്റെഡി സ്റ്റേറ്റിൽ ലോഡിന്റെ റിയൽ ഭാഗത്തേക്ക് വിതരണം ചെയ്യുന്ന പവർ പരിമിതമാണെന്ന് നമുക്ക് ലഭിക്കും അതിൽ നിന്ന് മൊത്തത്തിൽ മിസ്മാച്ച് ഇല്ലെന്ന് നമുക്ക് കണ്ടെത്താനാകും അന്ന് ലോഡ് റിഫ്ളക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ പവർ എന്തായിരുന്നു ലോഡ് റിഫ്ളക്ഷനിനൊപ്പം പവർ എന്തായിരുന്നു ഈ മിസ്മാച്ച് പ്രക്രിയയിൽ നഷ്ടപ്പെടുന്ന പവറാണ് ഇതു തമ്മിലുള്ള വ്യത്യാസം മിസ്മാച്ച് കാരണം എത്രത്തോളം പവർ നഷ്ടപ്പെടും എന്ന് നമ്മൾ കണ്ടെത്തി അതോടൊപ്പം നഷ്ടപ്പെട്ട റിലേറ്റീവ് പവറും നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ ആ എക്സ്പ്രഷൻ ഒടുവിൽ ഇതിലേക്ക് വരുന്നു ¿ 1−γ S γ L1−γ S γ L അതിനാൽ പാസ്സീവ് ലോഡുകൾക്ക് ഇത് വളരെ കുറവാണ് കാരണം പാസ്സീവ് ലോഡുകൾക്ക് ഈ റിഫ്ലക്ഷൻ കോഎഫീഷ്യന്റ് എല്ലാം 1 ൽ താഴെയാണ് സ്മിത്ത് ചാർട്ട് വിവരിക്കുമ്പോൾ നമ്മൾ കണ്ടു ഈ പാസ്സീവ് ലോഡുകൾക്ക് റീഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് 1 ൽ കൂടുതലാണെങ്കിൽ അതിനർത്ഥം ചില ആക്റ്റീവ് ഉപകരണങ്ങളിൽ നമുക്ക് ഓസിലേഷൻസ് മറ്റും ഉണ്ട് എന്നാണ് എന്നാൽ ഈ ലോഡുകളുടെ കാര്യത്തിൽ പാസ്സീവ് ലോഡുകൾ നമ്മൾ അനുമാനിക്കുകയാണെങ്കിൽ ഈ മൂല്യം 1 ൽ വളരെ കുറവായിരിക്കും ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത ടേബിൾ ഇതാ നമ്മൾ γ L γ S എന്നിവയുടെ വിവിധ മൂല്യങ്ങൾ എടുത്ത് റിലേറ്റീവ് പവർ ലോസ് എത്രത്തോളം ആണെന്ന് ശതമാനത്തിൽ കണ്ടെത്തി അതിനാൽ വിവിധ കാര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു എന്നാൽ ഈ പട്ടികയുടെ ഏറ്റവും താഴെയുള്ള കോളം അല്ലെങ്കിൽ അവസാന നിര കാണുക γ S 50 ശതമാനമാണെങ്കിൽ 0 5 ഉം γ L 0 5 ആണെങ്കിൽ റിലേറ്റീവ് പവർ ലോസ് 33 ശതമാനവുമാണ് അതായത് ഈ മിസ്മാച്ച് പ്രക്രിയയിൽ പവർ മൂന്നിലൊന്ന് നഷ്ടപ്പെടുന്നു അതിനാൽ ഞാൻ മൂന്ന് വാട്ട് പവർ അയയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ മിസ്മാച്ച് കാരണം ഒരു വാട്ട് പവർ നഷ്ടപ്പെടും ലോഡിൽ പവർ നഷ്ടപ്പെടുന്നില്ല അതിനാൽ അത് നല്ലതാണ് അതായത് γ L എന്നത് 0 ന് തുല്യമാണ് എന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ ലോഡ് റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കില്ല ഈ മിസ്മാച്ച് പ്രക്രിയയിൽ പവർ നഷ്ടപ്പെടില്ല എന്നാൽ നമുക്ക് ലോഡ് മിസ്മാച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ അതായത് ലോഡ് റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അധിക പവർ നഷ്ടപ്പെടുന്നു അതായത് സോഴ്സ് മിസ്മാച്ച് വർദ്ധിപ്പിക്കുമ്പോൾ ഈ നഷ്ടം കുറയുന്നു വ്യക്തമായും ഫിസിക്കലി അത് ശരിയാണ് കാരണം സോഴ്സിന് മിസ്മാച്ച് ഉണ്ടെങ്കിൽ പവറിൽ ചിലത് വീണ്ടും ലോഡിലേക്ക് വരുന്നു അതിനാൽ മുമ്പത്തെ ടേബിളിൽ നിന്നും അത് കാണാൻ കഴിയും നമ്മൾ γ L കോൺസ്റ്റന്റ് ആയി നിലനിർത്തിയിട്ടുണ്ടെന്നും γS ന്റെ വർദ്ധനയോടെ പവർ നഷ്ടം താഴേക്ക് വരുന്നതായി നിങ്ങൾക്ക് കാണാം γL ഉറപ്പിച്ച് നിർത്തികൊണ്ടുള്ള ഏത് തിരച്ചിലും എടുക്കുക എന്നാൽ γ S ന്റെ വർദ്ധനവ് അനുസരിച്ച് പവർ നഷ്ടം കുറയുന്നു അതിനാൽ സോഴ്സ് മിസ്മാച്ച് വർദ്ധിക്കുന്നതോടെ പവർ വീണ്ടും ലോഡിലേക്ക് വരുന്നു മറുവശത്ത് തന്നിരിക്കുന്ന സോഴ്സ് മിസ്മാച്ച് ന് അതായത് തന്നിരിക്കുന്ന γS ന് നമ്മൾ മിസ്മാച്ച് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഈ പവർ നഷ്ടപ്പെടുന്നത് വർദ്ധിക്കും കാരണം ലോഡിൽ കൂടുതൽ മിസ്മാച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൂടുതൽ പവർ സോഴ്സിലേക്ക് വരുന്നു എന്നാണ് അതിനാൽ അത് പവർ നഷ്ടത്തിന്റെ ഡിറ്റീരിയറേഷൻ എന്നാണ് ഇപ്പോൾ ΓL 0 5 ന് തുല്യമാകുമ്പോൾ 50 ശതമാനം പവർ നഷ്ടപ്പെടുന്ന ഏറ്റവും മോശമായ കാര്യം കാണുക നമുക്ക് ΓL0 5 ഉണ്ടെങ്കിൽ ഇപ്പോൾ ΓL0 5 എന്നതിൽ പകുതി പവർ നഷ്ടപ്പെടും അതായത് VSWR 3 ആണ് അതുപോലെ തന്നെ ΓL0 1 10 ശതമാനം പവർ റിഫ്ലക്ട് ചെയ്യുന്നു അതായത് ΓL വോൾട്ടേജ് റിഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് ആണ് അതിനാൽ നമ്മുടെ പവർ റീഫ്ലക്ഷൻ കോയെഫിഷ്യന്റ് വ്യത്യസ്തമാണ് അത് 0 25 ആയിരിക്കും അത് 0 25 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും അതിനാൽ ഇവിടെ നിങ്ങൾ ΓL0 5 കാണുന്നു അതിനാൽ നിങ്ങൾ VSWR 1 23 നായി കാണുന്നു നമ്മൾക്ക് 10 ശതമാനം പവർ നഷ്ടപ്പെട്ടു ഏറ്റവും മോശമായ സാഹചര്യത്തിൽ VSWR 1 11 ആയി നിലനിർത്തുമ്പോൾ 5 പവർ നഷ്ടപ്പെടുന്നു അതിനാൽ ലോഡ് വിഎസ്ഡബ്ല്യുആർ പൊതുവെ സൂക്ഷിക്കുന്നു അതുകൊണ്ടാണ് ലോഡിന്റെ വിഎസ്ഡബ്ല്യുആർ 1 25 ശതമാനത്തിനുള്ളിൽ നിലനിർത്തുന്നത് ഈ നഷ്ട്ടം കൂടാതെ ഒരു ഡിസ്റ്റോർഷനും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം നിങ്ങൾ കാണുന്നത് പോലെ ഏത് സമയത്തും ടോട്ടൽ പവർ എന്നത് അവസാനമായി എമിറ്റഡ് സോഴ്സും മുൻ സോഴ്സും പ്ലസ് ചെയ്തു ലഭിക്കുന്നതാണ് ഇപ്പോൾ സോഴ്സ് പൊതുവെ ഏതെങ്കിലും ഓസിലേറ്റർ ആയിരിക്കും അവയ്ക്ക് ചില സ്വതന്ത്ര പ്രവർത്തനം ഉണ്ട് അതിനാൽ കുറച്ച് സമയത്തിന് ശേഷം അതിന്റെ ഫ്രീക്വൻസി മാറുന്നു അതിനർത്ഥം നേരത്തെ സൃഷ്ടിക്കപ്പെട്ട വേവ്സിന്റെ ഫ്രീക്വൻസി നമുക്കുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം അതിനാൽ ഒടുവിൽ നമുക്ക് ഒരു സിഗ്നൽ ലഭിക്കുന്ന സമയം സിഗ്നലിൽ ഡിസ്റ്റോർഷൻ ഉണ്ടായേക്കാം കാരണം വ്യത്യസ്ത സമയങ്ങളിൽ പുറപ്പെടുവിക്കുന്ന നിരവധി വേവ് ഉണ്ട് അവയ്ക്ക് ചിലത് ലഭിക്കുന്നു അതിനാൽ അവയെല്ലാം ഒരേ സോഴ്സിൽ നിന്ന് പുറപ്പെടുവിക്കുന്നവയാണെങ്കിലും അവയിൽ ചിലതിന് മറ്റുള്ളവയെ അപേക്ഷിച്ച് വ്യത്യസ്ത ഫ്രീക്വൻസികൾ ഉണ്ടായിരിക്കാം എന്നാൽ സോഴ്സ് അതായത് ഓസിലേറ്റർ സ്റ്റേബിൾ ആയ ഒന്നല്ല അതിനായി നിങ്ങൾക്ക് വിലകൂടിയ ഓസിലേറ്റർ ആവശ്യമാണ് അല്ലാത്തപക്ഷം അവക്ക് സാധാരണയായി അൽപ്പം ഫ്രീക്വൻസി വിത്യാസങ്ങൾ ഉണ്ടാവുന്നു അതിനാൽ ഇതിലെ ഗണിതശാസ്ത്രപരമായ എല്ലാ വിശദാംശങ്ങളും വിശദീകരിച്ചിരിക്കുന്നത് കാണാൻ നമ്മൾ ഇവിടെ ശ്രമിച്ചു അതിനാൽ നമുക്ക് ലഭിക്കുന്ന ഡിസ്റ്റോർഷൻ എന്താണ് അർത്ഥശൂന്യമായ ഡിസ്റ്റോർഷൻ എല്ലായ്പ്പോഴും വോൾട്ടേജിൽ സംഭവിക്കുന്നുവെന്ന് ഓർമ്മിക്കുക അതിനാൽ ആദ്യ റിഫ്ലക്ഷന് ശേഷം ബാക്കിയാക്കുന്ന ഡിസ്റ്റോർഷൻ പവർ എന്താണെന്ന് ആത്യന്തികമായി നമ്മൾ കണ്ടെത്തി ഇതിനെ മുൻപത്തെ റീഫ്ലക്ഷന്റെ ആകത്തുക കാരണം ബാക്കിയാവുന്ന പവർ കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നു ആ പദപ്രയോഗം നമ്മൾ നൽകിയിരിക്കുന്നു നമ്മൾ ഇപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള ഒരു പട്ടിക ഉണ്ടാക്കി നിങ്ങൾക്ക് പട്ടിക കാണാനാകും വീണ്ടും γL 0 ന് തുല്യമാണെന്ന് കാണാനും കഴിയും അതിൽ അഡിഷണൽ ഡിസ്റ്റോർഷൻ ഒന്നും തന്നെ ഇല്ല അതിനാൽ വീണ്ടും കൂടുതൽ ഡിസ്റ്റോർഷൻ ലോഡ് മിസ്മാച്ച്ന് കൂടുതൽ സെൻസിറ്റീവ് ആണ് എന്ന് പറയാം അതേ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും മോശമായ കേസ് വാല്യൂസ് നമുക്ക് നോകാം 3 അഡിഷണൽ ഡിസ്റ്റോർഷൻന് ലോഡിന്റെ VSWR 70 ശതമാനമായിരിക്കാം മറുവശത്ത് VSWR 1 1 ആണെങ്കിൽ അഡിഷണൽ ഡിസ്റ്റോർഷൻ 30 ശതമാനമാണ് അതിനാൽ നിങ്ങൾക്ക് ലോഡും ട്രാൻസ്മിഷൻ ലൈനും തമ്മിൽ നല്ല മിസ്മാച്ച് ഉണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ഡിസ്റ്റോർഷൻന് ഉയർന്ന സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇനി ഏത് സാഹചര്യത്തിലാണ് ഈ പവർ നമുക്ക് പരമാവധിയാക്കാൻ കഴിയുക എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം അതിനാൽ ലോഡിലേക്കോ ലോഡിന്റെ റിയൽ ഭാഗത്തേക്കോ വിതരണം ചെയ്യുന്ന പവർ നമ്മൾ കാണുന്നു VRL VS ZS ZL RL അതിനാൽ അതിൽ നിന്ന് നമ്മൾ പവർന്റ പദപ്രയോഗം കണ്ടെത്തി വ്യക്തമായും ഞാൻ പവർ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ അത് അതുപോലെ വരുന്നു അപ്പോൾ മാക്സിമം ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കും അപ്പോൾ VR മാക്സിമം ആവും അതായത് ഡിനോമിനേറ്റർ മിനിമം ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഡിനോമിനേറ്റർ രണ്ട് ക്വാണ്ടിറ്റികളുടെ സ്ക്വയർ ആണ് ഏത് സ്ക്വയർ ക്വാണ്ടിറ്റിയുടെയും ഏറ്റവും കുറഞ്ഞ വാല്യൂ 0 ആണ് അവ ഓരോന്നും പൂജ്യമാകാം എന്നാൽ RS RL എന്നിവ റെസിസ്റ്റൻസിന്റെ ഭാഗമാണ് അവ മാറ്റാൻ കഴിയില്ല അതിനാൽ റെസിസ്റ്റർ സ്റ്റമ്പുകൾ പൊതുവെ 0 ആകില്ല കാരണം ഒരു റെസിസ്റ്ററും ഇല്ലാതെ ഒരു സർക്യൂട്ട് നിർമ്മിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് സോഴ്സിലും ലോഡിലും ചില റെസിസ്റ്റൻസ് ഉണ്ടാകും പക്ഷേ റിയാക്ടീവ് ടേമുകൾ ഫ്രീക്വൻസി ഡിപെൻഡൻഡ് ആണ് അതിനാൽ നമുക്ക് ആ X S പ്ലസ് XL നെ അവയുടെ ആകത്തുക 0 ആക്കാം നമുക്ക് രണ്ടാം ടേമിനെയും 0 ലേക്ക് ആകാം അതായത് XS XL സോഴ്സ് റിയാക്ടൻസ് ലോഡിന്റെ നെഗറ്റീവിന് തുല്യമാണ് അത് നമ്മൾക്ക് മിനിമം ആകാം ആ സമയം നമ്മൾ ആ മാനദണ്ഡത്തിന് കീഴിലാണെങ്കിൽ PR ഇതായിരിക്കും എങ്കിൽ ഇത് പരമാവധി ആണോ അല്ലെങ്കിൽ കുറഞ്ഞതാണോ എന്ന് നമുക്ക് കാണാൻ കഴിയും അത് RL നെ സംബന്ധിച്ച് നമുക്ക് വേർതിരിക്കാനാകും അത് RS ന്റെ കണ്ടിഷൻ നൽകുന്നു അതായത് RS RL ZSZL അതായത് ലോഡ് ഇംപെഡൻസിന്റെ കോംപ്ലക്സ് കൊഞ്ചുഗേറ്റ് ആയ സോഴ്സ് ഇംപെഡൻസിനെ സോഴ്സിന്റെയും ലോഡിന്റെയും കൊഞ്ചുഗേറ്റ് മാച്ചിങ് എന്ന് വിളിക്കുന്നു അതിനാൽ കോഞ്ചുഗേറ്റ് മാച്ചിങ് സംഭവിക്കുകയാണെങ്കിൽ കോഞ്ചുഗേറ്റ് മാച്ചിങ്ന് കീഴിൽ ലോഡിൽ വികസിപ്പിച്ച വോൾട്ടേജ് എന്താണെന്ന് നമ്മൾക്കറിയാം സാധിക്കും നിങ്ങൾ പ്രവർത്തിച്ചത് കാരണം ആ സമയം മൊത്തം റിയാക്റ്റൻസിൽ ഒരു റിയാക്ടീവ് ഭാഗവും 0 ആയിട്ടില്ല സോഴ്സിൽ രണ്ട് റെസിസ്റ്റൻസും RS RL തുല്യമാണ് അതിനാൽ സോഴ്സ് വോൾട്ടേജിന്റെ പകുതി RS ലുടനീളവും സോഴ്സ് വോൾട്ടേജിന്റെ മറ്റേ പകുതി RL ലുടനീളവുമാണ് അതിനാൽ പവർ നമുക്ക് കാൽക്കുലേറ്റ് ചെയാം അത് PᴿL PᴿLV²ₛ4RL സോഴ്സ് ആണ് അപ്പോൾ സോഴ്സ് റെസിസ്റ്റൻസ് അനുസരിച്ച് പവർ എന്താണ് നിങ്ങൾക്ക് ലോഡിലേക്ക് നൽകാൻ കഴിയുന്ന അതെ പവർ അതിനേക്കാൾ കൂടുതൽ ഇല്ല അതിനാൽ ഇത് ഒരു സുന്ദരമായ കാര്യമാണ് ഇത് ഈ കാര്യത്തിന്റെ ഒരു ഉപോൽപ്പന്നവുമാണ് അതായത് ഇത് കോഞ്ചുഗേറ്റ് മാച്ചിങ്ന്റെ കീഴിൽ ലോഡിലേക്ക് വിതരണം ചെയ്യുന്ന പവർ സോഴ്സിൽ ശേഷിക്കുന്ന പവറിന് തുല്യമാണ് അതിനാൽ സെല്ലുലാർ ടെലിഫോൺ റേഡിയേറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ പറയുകയാണെങ്കിൽ പോലും സോഴ്സ് ഇപ്പോൾ പകുതി പവർ നൽകുന്നു അതിനാൽ ലോഡ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനാകില്ല എന്നാൽ ഊർജ്ജത്തിന്റെ പകുതിയോളം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ സോഴ്സിൽ ഉടനീളം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും മെഷർമെന്റ് ചെയ്യാൻ കഴിയും അതായത് നിങ്ങൾക്ക് ഒരു കോഞ്ചുഗേറ്റ് മാച്ചിങ് ലഭിച്ചുവെന്നും ലോഡിന് ആ പവറിന്റെ പകുതി ലഭിക്കുന്നുണ്ടെന്നും നിങ്ങൾക്കറിയാം അതിനാൽ ഇതാണ് പവർ മെഷർമെന്ററ്റിന്റെ അടിസ്ഥാനം അതിനാൽ ട്രാൻസ്മിറ്ററിൽ തന്നെ ലോഡ് എത്ര പവർ എടുക്കുന്നുവെന്ന് നമുക്ക് കണ്ടെത്താനാകും അടിസ്ഥാനപരമായി ഇത് ഒരു പവർ മെഷർമെന്റ് ആണ് അതിനുള്ള ഒരു സാങ്കേതികത ഇതാണ് ഏത് വോൾട്ടേജിൽ അല്ലെങ്കിൽ ഏത് ലോഡിൽ പവറിന്റെ പകുതി ലഭിക്കുന്നു എന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും കാരണം നിങ്ങൾക്ക് സോഴ്സ് പവർ അറിയാം അതിനാൽ സോഴ്സ് പവർ ഒരു വാട്ട് ആണെന്ന് കരുതുക അത് RS ൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പവറിന്റെ പകുതി ലഭിക്കുന്നു അതിനാൽ സോഴ്സ് ടൈം കോഞ്ചുഗേറ്റ് മാച്ചിങ്ന് തുല്യമാണ് ഇപ്പോൾ കോഞ്ചുഗേറ്റ് മാച്ചിങ്ന് കീഴിലുള്ള മുഴുവൻ നെറ്റ്വർക്കിന്റെയും ടോട്ടൽ റിയാക്റ്റൻസ് 0 ആണ് അതിനാൽ സോഴ്സ് വോൾട്ടേജും ലോഡ് വോൾട്ടേജും തമ്മിൽ ഫെയ്സ് ഷിഫ്റ്റ് ഇല്ലെന്ന് നമുക്ക് പറയാം അതിനാൽ ഇതിനെ ഫേസ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ എന്നു വിളിക്കുന്നു അതിനാൽ കോഞ്ചുഗേറ്റ് മായ്ച്ചിങ്ങിന്റെ ഇമ്പ്ലിക്കേഷൻ എന്തെന്നാൽ സോഴ്സിൽ നിന്ന് ലോഡിലേക്കുള്ള പരമാവധി പവർ ട്രാൻസ്പോർട്ടേഷനും ഫേസ് ഷിഫ്റ്റ് ഇല്ലാതെ വോൾട്ടേജ് ട്രാൻസ്പോർട്ടേഷനും ആണ് കൂടാതെ ആ കേസിൽ ലോഡ് റിഫ്ളക്ഷൻ കോയെഫിഷ്യന്റ് ΓL 0 ആയിരിക്കും ΓS 0 ആണ് അതിനാൽ ഡിസ്റ്റോർഷനും പവർ ലോസ്സും ഉണ്ടാകില്ല മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ വളരെ ആവശ്യമുള്ള കാര്യമാണിത് കാരണം പവർ നഷ്ടപ്പെടുക ഫെയ്സ് ട്രാൻസ്ഫോർമേഷനിലെ ഡിസ്റ്റോർഷൻ തുടങ്ങിയ ധരാളം ബുദ്ധിമുട്ടുകൾ നമുക്ക് കോഞ്ചുഗേറ്റ് മാച്ചിങ് നടത്താൻ കഴിയുമെങ്കിൽ ഒഴിവാക്കാനാകും അതിനാൽ മൈക്രോവേവ് നെറ്റ്വർക്കുകളുടെ കാര്യത്തിൽ കോഞ്ചുഗേറ്റ് മാച്ചിങ് അല്ലെങ്കിൽ ഇംപെഡൻസ് മാച്ചിങ് ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ പ്രഭാഷണം പറയാൻ ശ്രമിച്ചു കൂടാതെ ലോഡും സോഴ്സും പരസ്പരം ലോഡും സോഴ്സ് ഇംപെഡൻസുമായി കോഞ്ചുഗേറ്റ് ചെയുന്നിടത്തെ അനുയോജ്യമായ ഇംപെഡൻസ് മാച്ചിങ്ങിനെ കോഞ്ചുഗേറ്റർ മാച്ചിംഗ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഈ കോഞ്ചുഗേറ്റ് മാച്ചിങ് നേടുന്ന നെറ്റ്വർക്കുകൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്ന് അടുത്ത പ്രഭാഷണങ്ങളിൽ നമുക്ക് കാണാം